നമസ്കാരം അവസാന ക്ലാസിൽ സോഴ്സ് ഫ്രീ ആർസി സർക്യൂട്ട് പ്രതികരണത്തെക്കുറിച്ച് വിശദീകരിച്ചു ഈ ക്ലാസ്സിൽ ആർഎൽ സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഉറവിടം ലഭ്യമല്ലാത്തപ്പോൾ സർക്യൂട്ട് എങ്ങനെ പ്രതികരിക്കും എന്ന് കാണും ഇപ്പോൾ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കാം സോഴ്സ് ഫ്രീ ആർഎൽ സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ചചെയ്യാം ഇന്നത്തെ ക്ലാസിനായി നമ്മൾ പരിഗണിക്കുന്നത് ആർഎൽ സർക്യൂട്ടാണ് R ന് സമാന്തരമായി എൽ കണക്റ്റുചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ ഈ ഘടകങ്ങൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും ഇപ്പോൾ ഈ സർക്യൂട്ട് വിശകലനത്തിന്റെ ലക്ഷ്യം ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് കണ്ടെത്താൻ എന്നതാണ് ഇവിടെ പ്രതികരണമായി ഇൻഡക്റ്റർ കറന്റ് തിരഞ്ഞെടുത്തു കാരണം ആർസി സർക്യൂട്ടിലെ കപ്പാസിറ്റർ വോൾട്ടേജിന് സമാനമായി ഇൻഡക്റ്ററിലൂടെയുള്ള കറന്റ് തൽക്ഷണം മാറാൻ കഴിയില്ലെന്ന് നമുക്കറിയാം ഇവിടെ ഇൻഡക്റ്റർ കറന്റിന് തൽക്ഷണം മാറാൻ കഴിയില്ല ഇപ്പോൾ t എന്നത് പൂജ്യത്തിന് തുല്യമാണെന്ന് കരുതുക ഇൻഡക്റ്ററിന് ഒരു പ്രാരംഭ കറന്റ് ഉണ്ട് അതിനാൽ നമുക്ക് സർക്യൂട്ട് വിശകലനം ചെയ്യാം ഇൻഡക്റ്ററിൽ ആദ്യം സംഭരിക്കപ്പെടുന്ന ഊർജ്ജം ഇപ്പോൾ ഈ പ്രത്യേക ലൂപ്പിന് ചുറ്റും കെവിഎൽ പ്രയോഗിച്ചാൽ അവിടെ എന്നതും ആണ് അതിനാൽ നമുക്ക് ലളിതമായി എഴുതാം ഈ സമവാക്യത്തിൽ ആർസി സർക്യൂട്ടിന്റെ കാര്യത്തിലെന്നപോലെ പരിഹരിക്കാൻ ഇന്റഗ്രേഷൻ ടെക്നിക് ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ലഭിക്കും ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് ലഭിക്കും അതിനാൽ ആർസി സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ അനുമാനിച്ചതിന് സമാനമായി സ്ഥിരാങ്കം ln A ആണെന്ന് കരുതുക t പൂജ്യത്തിന് തുല്യമാകുമ്പോൾ പ്രാരംഭ മൂല്യം ആണ് അതിനാൽ മുകളിലുള്ള സമവാക്യം ഇങ്ങനെ എഴുതാം അതിനാൽ RC സർക്യൂട്ടുമായി താരതമ്യം ചെയ്താൽ നമ്മൾ കണക്കാക്കിയ ഇവിടെ കറന്റ് ഈ ഫംഗ്ഷൻ എക്സ്പോണൻഷ്യലി ക്ഷയിച്ചുകൊണ്ടിരിക്കും അതിനാൽ ഇത് i0 എന്ന പ്രാരംഭ മൂല്യത്തിൽ ആരംഭിക്കുകയും തുടർന്ന് ഫംഗ്ഷനുമായി ക്ഷയിക്കുകയും ചെയ്യും അതിനാൽ ഈ ചിത്രം കണ്ടാൽ t എന്നത് ടൌ ന് തുല്യമാണെന്ന് നിങ്ങൾ കാണും ഇപ്പോൾ അതിന്റെ പ്രാരംഭ മൂല്യത്തിന്റെ 36 8 ശതമാനമായി മാറും എന്താണ് ടൌ ആർസി സർക്യൂട്ടുമായി ബന്ധപ്പെടുത്തിയാൽ ടൌ ടൈം കോൺസ്റ്റന്റ് ആയിരുന്നു ടൌ ടൈം കോൺസ്റ്റന്റ് അല്ലാതെ മറ്റൊന്നുമല്ല ടൌ ന്റെ മൂല്യം i0 e പവർ മൈനസ് t by ടൌ കൊണ്ട് താരതമ്യം ചെയ്താൽ നമുക്ക് ലളിതമായി പറയാം ടൌ എന്നത് L by R അല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് RL സർക്യൂട്ടിലെ നമ്മുടെ ടൈം കോൺസ്റ്റന്റ് τ ലഭിച്ചു L by R അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ എൽ ആർ എന്നിവ എഴുതുന്നതിനുപകരം കറന്റ് I നമുക്ക് എഴുതാം അതിനാൽ റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് ഇപ്പോൾ റെസിസ്റ്റർ തൽക്ഷണമായ പവർ p സമയം t വരെ റെസിസ്റ്റർ ആഗിരണം ചെയ്യുന്ന ഊർജ്ജം ഈ സമവാക്യത്തിൽ നിന്ന് t ഇൻഫിനിറ്റിക്ക് തുല്യമാണെന്ന് പറയുമ്പോൾ ഇതാണ് ഇൻഡക്റ്ററിൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ മൂല്യം അതിനാൽ പ്രാരംഭ ഊർജ്ജം ഇൻഡക്ടറിൽ സംഭരിച്ചിരുന്നതെല്ലാം ക്രമേണ റെസിസ്റ്ററിൽ വ്യാപിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ ടൈം കോൺസ്റ്റന്റിനെ ക്കുറിച്ചുള്ള ചില പ്രധാന വസ്തുതകൾ നോക്കാം സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് ചെറുതാണെങ്കിൽ പ്രതികരണത്തിന്റെ ക്ഷയത്തിന്റെ നിരക്ക് വേഗത്തിലാകും അതിനാൽ ആർസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ കണ്ടതിന് സമാനമാണിത് ആർഎൽ സർക്യൂട്ടിൽ സമാനമായി ചെറിയ ടൈം കോൺസ്റ്റന്റ് പ്രതികരണത്തിന്റെ ക്ഷയത്തിന്റെ വേഗതയെ വേഗത്തിലാക്കുന്നു ടൈം കോൺസ്റ്റന്റ് വലുതായിരിക്കുമ്പോൾ പ്രതികരണത്തിന്റെ ക്ഷയത്തിന്റെ നിരക്ക് കുറവായിരിക്കും ഇപ്പോൾ ആർസി സർക്യൂട്ടിന്റെ കാര്യത്തിലെന്നപോലെ ഏത് സമയത്തും പ്രതികരണം 5 ടൈം കോൺസ്റ്റന്റ് ശേഷം അതിന്റെ പ്രാരംഭ മൂല്യത്തിന്റെ 1 ശതമാനത്തിൽ താഴെയായി കുറയുന്നു സമയം 5 τ ആകുമ്പോൾ അതായത് ടൈം കോൺസ്റ്റന്റിന്റെ 5 മടങ്ങ് ആകുമ്പോൾ വോൾട്ടേജിന്റെ മൂല്യം ഒരു ശതമാനത്തിൽ താഴെയാണ് അതിനാൽ ഇവിടെ ആർഎൽ സർക്യൂട്ടിന്റെ കാര്യത്തിൽ പ്രതികരണം ക്ഷയിക്കും അതായത് ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന കറന്റ് മൂല്യം 5 ടൈം കോൺസ്റ്റന്റിന് ശേഷം അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 1 ശതമാനത്തിൽ താഴെയെത്തും ഇപ്പോൾ സോഴ്സ് ഫ്രീ ആർഎൽ സർക്യൂട്ടിൽ പ്രവർത്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കണം അതിനനുസരിച്ച് സർക്യൂട്ട് പരിഹരിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന പ്രാരംഭ കറന്റ് കണ്ടെത്തണം സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് കണ്ടെത്തുകയും മൂന്നാമതായി സർക്യൂട്ടിന് ഒരൊറ്റ ഇൻഡക്റ്റർ ഉള്ളപ്പോൾ നിരവധി റെസിസ്റ്ററുകൾ ബന്ധിപ്പിക്കുകയും അല്ലെങ്കിൽ ചില ആശ്രിത സ്രോതസ്സുകളും ഉണ്ടാകാം സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള നല്ല ഓപ്ഷനാണ് തെവെനിൻ എക്വിവാലെന്റ് അതിനാൽ ഒരു ലളിതമായ ആർഎൽ സർക്യൂട്ട് രൂപീകരിക്കുന്നതിന് ഇൻഡക്റ്ററിന്റെ ടെർമിനലുകളിൽ തെവെനിൻ എക്വിവാലെന്റ് ഉപയോഗിക്കും അല്ലെങ്കിൽ നിരവധി ഇൻഡക്റ്ററുകൾ സംയോജിപ്പിച്ച് ഒരൊറ്റ തുല്യമായ ഇൻഡക്റ്റർ രൂപീകരിക്കാൻ കഴിയുമ്പോൾ തെവെനിൻ സിദ്ധാന്തം ഉപയോഗിക്കാം അതിനാൽ ചുരുക്കത്തിൽ നമുക്ക് ഒന്നിലധികം ഇൻഡക്റ്ററുകളും റെസിസ്റ്ററുകളും ഉള്ള സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സർക്യൂട്ട് ലളിതമാക്കാൻ തെവെനിൻ സിദ്ധാന്തം ഉപയോഗിക്കാം സർക്യൂട്ടിന്റെ പ്രതികരണം കണ്ടെത്തുക ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അങ്ങനെ ആശയം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് പറയാം ഇവിടെ 0 5 H ന്റെ ഒരു ഇൻഡക്റ്റർ കറന്റ് i വഹിക്കുന്നു ഒപ്പം സമാന്തരമായി 2 ഓം റെസിസ്റ്റൻസും അതിലൂടെ കറന്റ് ഒഴുകുന്നു അപ്പോൾ നമുക്ക് ഇൻഡക്ടറിന്റെയും റെസിസ്റ്ററിന്റെയും സമാന്തര സംയോജനത്തോടെ 4 ഓം സീരീസ് ഉണ്ട് അത് ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സുമായി സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിന്റെ കറന്റ് ഘടകം സർക്യൂട്ടിൽ നൽകിയിരിക്കുന്ന വോൾട്ടേജ് ഉറവിട മൂല്യം 3i ആണെങ്കിൽ കറന്റ് ഘടകം ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന പ്രാരംഭ മൂല്യം I ആ സമയത്ത് t 0 ന് തുല്യമാണ് 10 ആമ്പിയർ ആണ് ഇൻഡക്റ്ററിലൂടെ സമയം ടി യുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് 2 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് I ന്റെ മൂല്യം കണ്ടെത്തുക ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് വഴികളുണ്ട് ഒരു വഴി നമുക്ക് ഇൻഡക്റ്റർ ടെർമിനലിന്റെ എക്വിവാലെന്റ് റെസിസ്റ്റൻസ് നേടാൻ കഴിയും അല്ലെങ്കിൽ മറ്റൊരു വഴി ആദ്യം മുതൽ കിർചോഫ് വോൾട്ടേജ് നിയമം ഉപയോഗിച്ച് ആരംഭിക്കാം അതിനാൽ നമുക്ക് എക്വിവാലെന്റ് റെസിസ്റ്റൻസ് കണ്ടെത്തേണ്ടിവരുമ്പോൾ തെവെനിൻസ് സിദ്ധാന്തത്തെക്കുറിച്ചുള്ള അറിവ് ഉപയോഗപ്പെടുത്താനും എക്വിവാലെന്റ് റെസിസ്റ്റൻസ് കണ്ടെത്തുന്നതിന് സർക്യൂട്ട് ലളിതമാക്കാനും കഴിയും രണ്ടാമതായി നമുക്ക് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ഉള്ളപ്പോൾ കിർചോഫ് വോൾട്ടേജ് നിയമം ഉപയോഗിക്കാനും മെഷ് വിശകലനത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്നതുപോലെ സർക്യൂട്ട് ലളിതമാക്കാനും കഴിയും അതിനാൽ എന്ത് സമീപനം സ്വീകരിച്ചാലും അത് അതേപടി നിലനിൽക്കും പക്ഷേ എല്ലായ്പ്പോഴും നല്ലത് ആദ്യം ഇൻഡക്റ്റർ കറന്റ് നേടുക എന്നതാണ് ഇപ്പോൾ ആദ്യ രീതിയിൽ എക്വിവാലെന്റ് റെസിസ്റ്റൻസ് ഇൻഡക്റ്റർ ടെർമിനലുകളിലെ തെവെനിൻ റെസിസ്റ്റൻസിന് തുല്യമാണ് ഇപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ ഒരു ആശ്രിത വോൾട്ടേജ് ഉറവിടം ലഭ്യമാണ് നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് ഒരു വോൾട്ടേജ് ഉറവിടം ഉപയോഗിക്കാം ആ വോൾട്ടേജ് ഉറവിടത്തിന്റെ മൂല്യം ഇൻഡക്റ്റർ ടെർമിനൽ AB 1 വോൾട്ട് ആണെന്ന് അടുത്ത സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ പറയാം അതിനാൽ ടെർമിനൽ എബിയിൽ നിന്ന് ഇൻഡക്റ്റർ നീക്കം ചെയ്യുകയും 1 വോൾട്ടിന് തുല്യമായ ഒരു വോൾട്ടേജ് സ്രോതസ്സ് ചേർക്കുകയും ചെയ്തു നമുക്ക് സർക്യൂട്ടിൽ രണ്ട് മെഷുകളുണ്ട് കറന്റ് ഐ 1 ഐ 2 എന്നിവ ഈ ദിശയിലേക്ക് പ്രവഹിക്കുന്നുവെന്ന് പറയട്ടെ ഇവ രണ്ടും ഒരേ ദിശയിൽ ഈ കേസിൽ രണ്ട് മെഷുകൾക്കും കെവിഎൽ സമവാക്യം എഴുതാൻ ശ്രമിക്കാം ഇപ്പോൾ രണ്ടാമത്തെ ലൂപ്പിനായി നമുക്ക് എഴുതാം അതിനാൽ ഇവിടെ ആശ്രിത കറന്റ് ഉറവിടത്തിന്റെ മൂല്യം ആയിരിക്കും ഇത് പരിഹരിക്കുമ്പോൾ ലഭിച്ചു ഇപ്പോൾ നമുക്ക് i1 i2 എന്നിവയുടെ രണ്ട് സമവാക്യങ്ങളുണ്ട് ഇത് പരിഹരിച്ചാൽ നമുക്ക് i1 3 മൂല്യം ലഭിക്കുന്നു ഇപ്പോൾ i1 i0 ന്റെ ദിശയ്ക്ക് വിപരീതമാണ് ഇത് 1 വോൾട്ട് വോൾട്ടേജ് സ്രോതസ്സിലൂടെ ഒഴുകുന്ന കറന്റിൻറെ മൂല്യമാണ് അതിനാൽ i0 i1 അതിനാൽ നമുക്ക് i0 3 ആമ്പിയർ ലഭിക്കുന്നു ഇപ്പോൾ R എക്വിവാലെന്റ് തെവെനിൻ റെസിസ്റ്റൻസല്ലാതെ മറ്റൊന്നുമല്ല അതിന്റെ മൂല്യം ആണ് V0 മൂല്യം 1 വോൾട്ട് ആണ് i1 നമുക്ക് ലഭിച്ച 3 ആമ്പിയർ 13 ഓം ഒരു തെവെനിൻ റെസിസ്റ്റൻസായി ലഭിച്ചു ഇപ്പോൾ ടൈം കോൺസ്റ്റന്റിന്റെ മൂല്യം എന്തായിരിക്കും ടൈം കോൺസ്റ്റന്റ് L by R ന് തുല്യമായ മൂല്യം L ന് 0 5 ഹെൻറിയായി നൽകപ്പെടും അതിനാൽ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളതിനാൽ ആ R എക്വിവാലെന്റും ഇപ്പോൾ നൽകും 13 ഓം ആയി കണക്കാക്കുന്നു അതിനാൽ τ വിന്റെ മൂല്യം 32 സെക്കൻഡ് ആയിരിക്കും ഈ മൂല്യം കറന്റിന്റെ യഥാർത്ഥ സമവാക്യത്തിൽ ഇടും അതിനാൽ i 10 അവിടെയുണ്ട് നമുക്ക് ലഭിക്കുന്ന സമവാക്യത്തിൽ τ വിന്റെ മൂല്യം ഇടുന്നു ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് ഏത് സമയത്തും t ആണ് ഇപ്പോൾ രണ്ടാമത്തെ രീതി കണ്ടാൽ കെവിഎലിനെ സർക്യൂട്ടിലേക്ക് പ്രയോഗിക്കുന്നു അതിനാൽ കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇൻഡക്റ്ററിനെ സർക്യൂട്ടിലേക്ക് തിരികെ വയ്ക്കുക സർക്യൂട്ടിന് വീണ്ടും രണ്ട് മെഷുകൾ ഉണ്ടാകും ആ വൈദ്യുതധാരകളുടെ മൂല്യം i1 i2 എന്നിങ്ങനെ എടുക്കാം മുകളിലുള്ള സ്ലൈഡുകളിൽ കാണിച്ചിരിക്കുന്നതുപോലെ രീതി 1 ലെ അതേ ഉത്തരം ലഭിക്കും അതിനാൽ ഒന്നുകിൽ കിർചോഫ് വോൾട്ടേജ് നിയമം നേരിട്ട് സർക്യൂട്ടിലേക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ തെവെനിൻ സിദ്ധാന്തം ഉപയോഗിക്കും അതിനാൽ അതേ ഫലം ലഭിക്കും ഇപ്പോൾ i ന്റെ മൂല്യം ലഭിച്ചു അടുത്ത ടാസ്ക് നമ്മൾ v യുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് അത് ഇൻഡക്ടറിന് കുറുകെയുള്ള വോൾട്ടേജല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇൻഡക്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് L di dt നമുക്ക് ഇൻഡക്റ്റർ L ന്റെ മൂല്യം ഇടാം കറന്റ് I ന്റെ പ്രാരംഭ മൂല്യം i0 കാരണം di ബൈ dt നിങ്ങൾ വേർതിരിക്കുമ്പോൾ നിങ്ങൾക്ക് di dt യുടെ മൂല്യം ലഭിക്കും അതിനാൽ ഇത് 0 5 ഇന്റു i0 ഗുണം മൈനസ് 2 ബൈ 3 ടേം ഇന്റു ഇ പവർ മൈനസ് 2t ബൈ 3 അതിനാൽ വോൾട്ടേജ് V യുടെ മൂല്യം മൈനസ് 10 ബൈ 3 ഗുണം e റ്റു പവർ മൈനസ് 2t 3 വോൾട്ട് ഇപ്പോൾ ഇൻഡക്ടറും 2 ഓം റെസിസ്റ്ററുകളും സമാന്തരമായിരിക്കുന്നതിനാൽ അതിനർത്ഥം ഇൻഡക്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 2 ഓം റെസിസ്റ്ററിന് കുറുകെയുള്ള അതേ വോൾട്ടേജായിരിക്കും അതിനാൽ നമുക്ക് കറന്റിന്റെ മൂല്യം കണക്കാക്കാം

അതിനാൽ നിങ്ങൾക്ക് തെവെനിൻ എക്വിവാലെന്റോ കിർചോഫ് വോൾട്ടേജ് നിയമം ഉപയോഗിച്ച് മെഷ് വിശകലന രീതിയോ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒടുവിൽ അതേ ഉത്തരം ലഭിക്കും അതിനാൽ ഞങ്ങൾ ഇന്ന് ആർഎൽ സർക്യൂട്ട് സെഷൻ ഈ ഘട്ടത്തിൽ അവസാനിപ്പിക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ വിവിധ സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്യും പ്രത്യേകിച്ചും സർക്യൂട്ടിന്റെ വിശകലനത്തിന് ആവശ്യമായ ഉറവിടങ്ങൾ അതിനാൽ പ്രത്യേക വൈദ്യുത സർക്യൂട്ട് കണ്ടാൽ വോൾട്ടേജ് ഉറവിടമോ കറന്റ് ഉറവിടമോ പ്രയോഗിക്കുന്നു അതിനാൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ഉറവിടം പ്രയോഗിക്കുമ്പോൾ അവ പെട്ടെന്ന് സർക്യൂട്ടിൽ പ്രയോഗിക്കാം അതിനാൽ ഉറവിടത്തിന്റെ ഒരു ഘട്ട പ്രതികരണം ലഭിക്കും അതാണ് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാന തരം സ്രോതസ്സ് കൂടാതെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സർജുകൾ വരുമ്പോൾ നമുക്ക് സർക്യൂട്ടിൽ മറ്റൊരു തരം പൾസ് ലഭിക്കുന്നു അതിനെ പൾസ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നു ഗണിതശാസ്ത്രപരമായ പ്രവർത്തനത്തിന്റെ സഹായത്തോടെ ആ പ്രത്യേക സംഭവത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് കാണും കാരണം ഇവ രണ്ടും നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ വിശകലനത്തിന് ആവശ്യമാണ് അതിനാൽ ഒരു ഗണിതശാസ്ത്ര പദത്തിൽ അവ രണ്ടും എങ്ങനെ പ്രതിനിധീകരിക്കും എന്ന് കാണും വിവിധ ആർസി ആർഎൽ സർക്യൂട്ടുകളിൽ അവ രണ്ടും പ്രയോഗിക്കുകയും സ്റ്റെപ്പർ ഇംപൾസ് തരം സ്രോതസ്സുകൾ സർക്യൂട്ടിൽ പ്രയോഗിക്കുമ്പോൾ അവർ എങ്ങനെ പെരുമാറുമെന്ന് കാണുകയും ചെയ്യും നന്ദി